ഈ പതിനേഴാമത്തെ ലെക്ച്ചറിലേക്കു സ്വാഗതം ഇവിടെ നാം വളരെ പ്രധാനപ്പെട്ട രണ്ടു മൈക്രോവേവ് ഡിവൈസുകളുടെ സ്കേറ്ററിങ് പാരാമീറ്റർ നോക്കുന്നതാണ് ഒന്ന് കപ്ലർ മറ്റൊന്ന് മാജിക് ടീ ഈ കപ്ലർ എന്നതിന്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾക്കു ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്കു പവർ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഈ കപ്ലർ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ വേറെയും ഉപയോഗങ്ങൾ ഉണ്ട് അത് നാം അവസാനം പറയുന്നതാണ് ആധുനിക മൈക്രോവേവ് അളവ് എന്നത് നെറ്റ്വർക്ക് അനലൈസറിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ കപ്ലർ വളരെ അടിസ്ഥാനമായ ഉപകരണമാണ് അതുപോലെ തന്നെ മാജിക് ടീ എന്നതും ഇതിനെ മാജിക് ടീ എന്ന് എന്ത്കൊണ്ടാണ് പറയുന്നത് ഇതിൽ മാജിക് ഒന്നും ഇല്ല അത് നന്നായി അറിയാം എന്നാൽ ഈ മാജിക് ടീ എന്നത് വളരെ പ്രധാനമാണ് പിന്നെ മറ്റൊരു പ്രധാന മൈക്രോവേവ് ഉപകരണമാണ് റഡാർ അതിനാലാണ് നാം ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്തത് നെറ്റ്വർക്ക് അനലൈസർ ആണ് നാം അളക്കാനായി ഉപയോഗിക്കുന്നത് പിന്നെ റഡാർ അത് ഒരു വസ്തു കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നു അപ്പോൾ അത് ഒരു മൈക്രോവേവ് സെൻസർ ആണ് അപ്പോൾ ദൂരത്തുള്ള ഏതൊരു വസ്തുവും ഈ റഡാർ വച്ച് കണ്ടെത്താനാകും എനിക്ക് കാണാനാകാത്തതും റഡാറിനു കാണാനാകും ഇത് ഈ റഡാറിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതുകൊണ്ടാണ് കപ്ലർ പിന്നെ മാജിക് ടീ എന്നിവയുടെ സ്കേറ്ററിങ് പാരാമീറ്റർ ആധാരമാക്കിയുള്ള വിശദീകരണം നാം ഇവിടെ നൽകുന്നത് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് സർക്യൂട്ടിൽ നമുക്ക് പവർ ഡിവൈഡ് ചെയ്യണം എനിക്ക് ഒരു മെയിൻ ആയ പവർ ലൈൻ ഉണ്ട് എന്ന് കരുതുക അതിൽ നിന്നുമാണ് ഞാൻ പവർ വിഭജിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ നിത്യമായ പരിപാടികളിൽ തന്നെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ പവർ വിഭജിച്ചു കൊടുക്കുന്നത് കാണുന്നതാണ് അതുപോലെ ഉയർന്ന ഫ്രീക്വൻസിയിൽ എനിക്ക് ഒരു പവർ സോഴ്സ് ഉണ്ട് എന്ന് കരുതുക അതിൽ നിന്നും എനിക്ക് പവർ വിഭജിക്കണം എന്നും കരുതുക അതിനു വേണ്ടി ആണ് പവർ ഡിവൈഡർ അതുപോലെ ഇവിടെ കൂടുതൽ പവറുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അവയെ ഒന്നിപ്പിക്കേണ്ടതായി വരും അപ്പോൾ പവർ ഡിവൈഡർ ആയാലും കമ്പൈനർ ആയാലും നാം പറയേണ്ട കാര്യമിതാണ് നമുക്ക് 3 പോർട്ട് എങ്കിലും ഇവിടെ വേണ്ടി വരും ഇവ നാം ഇതുവരെ കണ്ട 2 പോർട്ട് ഡിവൈസ് അല്ല അപ്പോൾ പവർ ഡിവിഷനു വേണ്ടി 3 4 പോർട്ട് ആവശ്യമാണ് പവർ ഇൻപുട് ചെയ്യാനായി ഒരു പോർട്ട് ആവശ്യമാണ് ഇനി അത് ഡിവൈഡ് ചെയ്തു കൊടുക്കാൻ നമുക്ക് 2 പോർട്ട് എങ്കിലും വേണം അപ്പോൾ ആകെ 3 പോർട്ട് എങ്കിലും ഇവിടെ ആവശ്യമാണ് ഇനി പവർ ഡിവിഷന്റെ കാര്യത്തിൽ ഇവിടെ എന്ന പവർ ആണ് വരുന്നത് പിന്നെ ഔട്ട്പുട്ട് പോർട്ടിൽ പിന്നെ എന്നിവ ആണ് വരുന്നത് ഇത് ലോസ് ലെസ്സ് ആണെങ്കിൽ എന്നത് ആയിരിക്കണം അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഡിവിഷൻ എന്നത് എപ്പോഴും ലോസ് ലെസ്സ് ആണ് എന്ന് നമുക്ക് പറയാനാകില്ല അപ്പോൾ ഈ ഡിവൈസിന്റെ ഉള്ളിൽ കുറച്ചു പവർ നഷ്ടമാകും അപ്പോൾ ഇതാണ് ലോസ് ലെസ്സ് പവർ ഡിവൈഡർ അതുപോലെ തന്നെ പവർ കമ്പൈനർ ആയാലും നമുക്ക് രണ്ടു ഇൻപുട് പോർട്ടുകൾ വേണ്ടതാണ് അത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതാണ് വീണ്ടും ഇത് ഒരു ലോസ് ലെസ്സ് കേസ് ആണ് എന്നാൽ ഇത് അങ്ങനെ അല്ല എങ്കിൽ ഈ ബന്ധം ഇവിടെ നിലനിൽക്കുന്നതല്ല ഇവിടെയും നമുക്ക് കുറച്ചു പവർ നഷ്ടപ്പെടുന്നതാണ് ഒരു 3 പോർട്ട് മൈക്രോവേവ് സർക്യൂട് ആയിരിക്കും ഇനി നോക്കുക തീർച്ചയായും നാം ആഗ്രഹിക്കുക ഒരു ലോസ് ലെസ്സ് പവർ ഡിവൈഡർ ആയിരിക്കും അപ്പോൾ ഡിവൈസിന്റെ ഉള്ളിൽ പവർ ഒന്നും നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം പോർട്ടുകളിലെ ഇമ്പിഡൻസ് എന്നത് മാച്ച് ചെയ്തിരിക്കണം ഈ ഇമ്പിഡൻസ് മാച്ചിങ് എന്നതിന്റെ ആവശ്യകത മുമ്പ് നാം കണ്ടതാണ് അല്ലെങ്കിൽ ഈ മിസ് മാച്ച് കാരണം അവിടെയും കുറച്ചു പവർ നഷ്ടപ്പെടാം അപ്പോൾ റിഫ്ലക്ഷൻ വഴി പവർ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഡിവൈസിലെ എല്ലാ പോർട്ടുകളും മാച്ച് ആകണം പിന്നെ ഇത് ഒരു പാസ്സീവ് ഐസോട്രോപിക് മെറ്റീരിയൽ വച്ചാണ് നിർമിച്ചതെങ്കിൽ അതിന്റെ ഭാരം കുറവായിരിക്കണം പിന്നെ മറ്റൊരു കാര്യം ദിവസങ്ങൾ കഴിയും തോറും ഈ മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സൈസ് കുറഞ്ഞു വരികയാണ് അതോടൊപ്പം ഭാരവും അതുകൊണ്ടു ഐസോട്രോപിക് മെറ്റീരിയൽ അല്ലാത്ത ഫെറൈറ്റ് പോലുള്ളവ ഈ കാര്യത്തിൽ ഉപയോഗിക്കുന്നതല്ല അത് പാസ്സീവ് ആയ ഐസോട്രോപിക് ഡിവൈസ് ആണ് അതിനായി പ്ലാനാർ ടെക്നോളജി ഉപയോഗിക്കുക എളുപ്പമാണ് പ്ലാനാർ ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ ഐസോട്രോപിക് അല്ലാത്ത മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നത് ഒട്ടും അനുകൂലമായ കാര്യമല്ല അതുകൊണ്ടാണ് നമ്മുടെ ഡിവൈസ് പാസ്സീവ് ഐസോട്രോപിക് ആയിരിക്കണം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഡിവൈസ് റെസിപ്രോക്കൽ ആയിരിക്കണം അതിന്റെ അർഥം നമുക്ക് വേണ്ട 3 പോർട്ട് മൈക്രോവേവ് ഡിവൈസ് ലോസ്ലെസ്സ് ആയിരിക്കണം പിന്നെ അതിന്റെ എല്ലാ പോർട്ടുകളും മാച്ച് ആയിരിക്കണം എന്നാണ് പിന്നെ അത് റേസിപ്രോക്കൽ ആയിരിക്കണം അത് നമുക്ക് മാത്തമറ്റിക്കൽ ആയി പറയേണ്ടതാണ് എന്നാൽ ഞാൻ അതിലേക്കു പോകുന്നതല്ല നിർഭാഗ്യവശാൽ അത് സാധ്യമല്ല എന്തെന്നാൽ ഒരു 3 പോർട്ട് നെറ്റ്വർക്കിലെ 3 പോർട്ടുകളും ഒരേ സമയം നമുക്ക് എടുക്കാനാകില്ല എന്നാൽ ഒരു സമയം നാം എടുക്കുന്ന പോർട്ട് ലോസ് ലെസ്സ് ആകാം ഇനി നിങ്ങൾക്കു ഉള്ളത് ഒരു ലോസ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ അതായതു ഒരു റെസിസ്റ്റീവ് ആയ ഡിവൈസ് ആണെങ്കിൽ അതിനകത്തു ധാരാളം ലോസ് ഉണ്ടാകുന്നതാണ് എന്നാൽ അത് പവർ ഡിവിഷൻ നൽകുന്നതാണ് അല്ലെങ്കിൽ പവർ ഒന്നിപ്പിക്കുന്നതാണ് പിന്നെ അതിൽ കുറച്ചു മിസ് മാച്ച് സംഭവിക്കാവുന്നതാണ് ആ കേസിൽ നിങ്ങൾക്കു ഒരു ലോസ് ലെസ്സ് റെസിപ്രോക്കൽ ആയ ഡിവൈസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ റെസിപ്രോക്കൽ അല്ലാത്ത ഡിവൈസും ഉപയോഗിക്കാം അപ്പോൾ അത് ലോസ് ലെസ്സ് പിന്നെ മാച്ച് ആയിരിക്കണം അതിനു ഒരു ഉദാഹരണമാണ് സർക്കുലേറ്റർ അത് ഒരു മൈക്രോവേവ് ട്രാൻസ്മിറ്റർ ആയി വലിയ തോതിൽ ഉപയോഗിക്കുന്നതാണ് അത് ഒരു ഉയർന്ന പവർ ഉള്ള ട്രാൻസ്മിറ്റർ ആണ് പിന്നെ റിസീവറും അതെ സ്ഥലത്തു തന്നെ ആണെങ്കിൽ അതിന്റെ ഉദാഹരണം റഡാർ ആണ് മറ്റൊന്ന് സാറ്റലൈറ്റ് അത് നമുക്ക് റിസീവർ ആയും ഉപയോഗിക്കാം ഈ കേസിൽ ട്രാൻസ്മിറ്റർ റഡാറിലേക്കു പവർ കൊടുക്കുകയാണ് എന്ന് കരുതുക ഇനി റിസീവർ ദൂരെ ഉള്ള വസ്തുവിൽ നിന്നും റിഫ്ലക്ട് ചെയ്തു വരുന്ന സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുകയാണ് പൊതുവെ ചെയ്യുക അത് ശക്തി കുറഞ്ഞ സിഗ്നൽ ആണ് അതിനാലാണ് റിസീവർ നല്ല സെൻസിറ്റീവ് ആകേണ്ടത് അപ്പൊൾ ശക്തികുറഞ്ഞ സിഗ്നലുകൾ ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഇനി ട്രാൻസ്മിറ്റർ പവർ കൊടുക്കുന്ന സമയത്തു റിസീവറിനു അത് ലഭിച്ചാൽ ആ റിസീവർ നശിക്കുന്നതാണ് എന്തെന്നാൽ ട്രാൻസ്മിറ്റർ ഉയർന്ന പവർ ആണ് കൊടുക്കുക പിന്നെ റിസീവർ കുറഞ്ഞ പവർ ആണ് സ്വീകരിക്കുക ആ സമയം ട്രാൻസ്മിറ്റർ റിസീവർ എന്നിവ നാം വേർതിരിക്കേണ്ടതാണ് അപ്പോൾ അതിനു വേണ്ടി വരുന്ന ഐസൊലേറ്റർ 3 പോർട്ട് ആയിരിക്കണം എന്തെന്നാൽ ഒരു പോർട്ടിൽ ട്രാൻസ്മിറ്റർ പിന്നെ മറ്റൊരു പോർട്ടിൽ റിസീവർ എന്നിവ കൊടുക്കേണ്ടതാണ് പിന്നെ മറ്റേ പോർട്ടിൽ കൂടി സിഗ്നൽ വരാനും പോകാനും ഉപയോഗിക്കുന്ന ആന്റിന കൊടുക്കുന്നു അപ്പോൾ 3 പോർട്ട് ആണ് ഉള്ളത് അവ തമ്മിൽ ഐസൊലേഷൻ കൊടുക്കേണ്ടതാണ് ഈ ഉപകരണമാണ് സർക്കുലേറ്റർ അത് പൊതുവെ ഐസോട്രോപിക് അല്ലാത്ത മെറ്റീരിയൽ ഫെറൈറ്റ് ഉപയോഗിച്ചായിരിക്കും നിർമിക്കുക എന്നാൽ അത് വളരെ ഭാരം ഉള്ളതാണ് എന്നാൽ ഈ കാലത്തു ഭാരം കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിക്കാനാകും നോക്കുക എന്നാൽ 3 പോർട്ടിൽ അത് സാധ്യമല്ല അതിനാലാണ് സർക്കുലേറ്ററിനു വേണ്ടി ഒരു സ്ലൈഡ് നാം വയ്ക്കുന്നത് അപ്പോൾ അത് ലോസ് ലെസ്സ് ആണ് പിന്നെ മാച്ച് ചെയ്തിരിക്കുന്നു അതോടൊപ്പം അനൈസോ ട്രോപിക് ആയ ഫെറൈറ്റ് വച്ചാണ് നിർമിച്ചിരിക്കുന്നത് പക്ഷെ പ്രശ്നം അത് ഭാരം കൂടിയതാണ് അത് ആകെ സിസ്റ്റത്തിന്റെ ഭാരം കൂട്ടുന്നതാണ് പിന്നെ അതൊരു റെസിസ്റ്റീവ് ഡിവൈഡർ ആണ് ഞാൻ പറഞ്ഞത് പോലെ അതിൽ ലോസ് ഉണ്ടാകുന്നു എന്നാൽ ഐസോട്രോപിക് ആണെങ്കിൽ എല്ലാ പോർട്ടുകളും മാച്ച് ചെയ്യുന്നതാണ് പക്ഷെ ഒരു ദോഷം എന്നത് അതിനു ഉയർന്ന ഇൻസെർഷൻ ലോസ് ആയിരിക്കും 3 പോർട്ടിന് പകരം 4 പോർട്ട് ആയിരിക്കും അതിനെയാണ് നാം ഡയറക്ഷണൽ കപ്ലർ എന്ന് വിളിക്കുക അതിനു 4 പോർട്ട് ആണ് ഉള്ളത് അതിനു ലോസ് ഇല്ല എല്ലാ പോർട്ടുകളും മാച്ച് ആണ് അത് പാസ്സീവ് ഐസോട്രോപിക് മെറ്റീരിയൽ വച്ചാണ് ഉണ്ടാക്കിയത് പിന്നെ അത് റെസിപ്രോക്കൽ ആണ് അപ്പോൾ 3 പോർട്ടുകൾക്കു പകരം നാം ഒരു പോർട്ട് കൂടെ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കൂടുതൽ ഇലക്ട്രോണിക് സർക്യൂട് ഉണ്ട് എന്നാൽ 4 പോർട്ട് ആണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ പൂർത്തിയായി മൈക്രോവേവ് നെറ്റ്വർക്കിന് വേണ്ട മൂന്നു സവിശേഷതകൾ അതായതു ലോസ് ലെസ്സ് എല്ലാ പോർട്ടിലും മാച്ച് പിന്നെ റേസിപ്രോക്കൽ അങ്ങനെ എല്ലാം തന്നെ നിറവേറ്റി അതിനാലാണ് ഈ ഡയറക്ഷണൽ കപ്ലർ വളരെ ഉപയോഗപ്രദമാകുന്നത് അത് നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറ്റുന്നതിനാൽ അത് മൈക്രോവേവ് സർക്യൂട്ടിൽ വലിയ തോതിൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ലാബിൽ നമുക്ക് ഈ ഡയറക്ഷണൽ കപ്ലർ ആണ് ഉള്ളത് ഇത് വേവ് ഗൈഡ് ആധാരമാക്കിയുള്ള ഡയറക്ഷണൽ കപ്ലർ ആണ് അതുപോലെ നിങ്ങൾക്കു പ്ലാനർ ഡയറക്ഷണൽ കപ്ലർ എടുക്കാം അതുപോലെ കോ ആക്സിയൽ ഡയറക്ഷണൽ കപ്ലർ എന്നതും എന്നാൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കു ഇവിടെ ഏതു റേഡിയേറ്റ് ചെയ്യുന്ന ആന്റിന ആയാലും നമുക്ക് വേണ്ടത് അത് എത്ര പവർ ആണ് കൊടുക്കുന്നത് എന്ന കാര്യമാണ് ഈ ഉപകരണമില്ലാതെ അത് നിങ്ങൾക്കു സാധ്യമല്ല ഈ ഡയറക്ഷണൽ കപ്ലർ നോക്കുക ഇതിൽ 4 പോർട്ടുകൾ ആണ് ഉള്ളത് ഈ പോർട്ടുകളിൽ പ്രധാനമായ പവർ കൊടുത്തിരിക്കുന്നത് ഈ പോർട്ട് 1 ൽ ആണ് ഈ പോർട്ട് 2 ൽ നിന്നുമാണ് ആ പവർ പോകുന്നത് അപ്പോൾ ഇവിടെ താഴെയാണ് മെയിൻ ലൈൻ പോകുക നിങ്ങൾക്കു കാണാം ഇവിടെ 2 വേവ് ഗൈഡ് ആണ് ഉള്ളത് ഒരെണ്ണം മുകളിൽ പിന്നെ ഒരെണ്ണം താഴെ അപ്പോൾ പോർട്ട് 1 പോർട്ട് 2 എന്നിവയിലൂടെ ആണ് മെയിൻ ലൈൻ പോകുക അതിനെ നമുക്ക് മെയിൻ ലൈൻ അല്ലെങ്കിൽ മെയിൻ വേവ് ഗൈഡ് എന്നും വിളിക്കാം ഈ പോർട്ട് 3 ൽ ഉള്ളത് ഓക്സിലറി ലൈൻ ആണ് ഇനി പോർട്ട് 4 ഇവിടെ ആണ് എന്നാൽ ഈ നാലാമത്തെ പോർട്ട് മിക്ക ഉപയോഗങ്ങളിലും ഉപയോക്താവിന് ഉപയോഗിക്കാനാകില്ല ചിലപ്പോൾ അത് ഉപയോഗിക്കും എന്നാൽ ചിലപ്പോൾ ഇല്ല അപ്പോൾ ഇത് 3 ടെർമിനൽ ഡയറക്ഷണൽ കപ്ലർ ആണ് എന്നാൽ അതിൽ 4 പോർട്ടുകൾ ഉണ്ട് എന്നാൽ നാം അതിനെ പോർട്ട് എന്ന് വിളിക്കുന്നതിൽ കാര്യമില്ല പുറത്തുള്ള ഒരാൾക്ക് അതിൽ പ്രവേശനമില്ലാത്തിടത്തോളം കാലം അതിനെ അങ്ങനെ വിളിക്കാനാകില്ല നാം അതിനെ പോർട്ട് എന്ന് വിളിച്ചെങ്കിലും അങ്ങനെ അല്ല എന്തെന്നാൽ ഇതിലേയ്ക്ക് ഒരു പവറും പോകുന്നില്ല പിന്നെ ഇതിൽ നിന്നും ഒരു പവറും തിരിച്ചു വരുന്നില്ല ഈ അറ്റത്തു പവർ ഉണ്ടെങ്കിൽ കൂടി എന്നാൽ ആ പവർ പുറത്തേക്കു ലഭിക്കില്ല അതിനാലാണ് ഇത് ഒരു പോർട്ട് അല്ലാത്തത് എന്നാൽ ഇത് ഇവിടെ നിന്നും മാറ്റി പിന്നെ ഇത് കൊടുക്കുമ്പോൾ അത് ഒരു പോർട്ട് ആയി മാറുന്നതാണ് ഇനി നമുക്ക് ഈ ഡയറക്ഷണൽ കപ്ലറിന്റെ സ്കേറ്ററിങ് പാരാമീറ്റർ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കാം നാം ആദ്യം പറഞ്ഞു ഈ പോർട്ടുകൾ എല്ലാം മാച്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവയെല്ലാ൦ 0 ആയിരിക്കണം മാച്ച് എന്നാൽ അതിന്റെ അർഥം ഇവിടെ ഒരു മിസ് മാച്ച് ഇല്ല അപ്പോൾ ഈ പോർട്ടുകളിൽ ഒന്നും തന്നെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതല്ല അതുകൊണ്ടാണ് ഈ 4 പോർട്ടിൽ നമുക്ക് നാലു 0 ഇടാൻ പറ്റുന്നത് എന്നാൽ മറ്റുള്ളവ നമുക്കറിയില്ല എല്ലാം മാച്ച് ആയതിനാൽ ഈ S മാട്രിക്സ് എന്നതിൽ 4 എലെമെന്റുകൾ 0 ആയിരിക്കും നമുക്കറിയാം ഈ ഡയറക്ഷണൽ കപ്ലർ എന്നത് റെസിപ്രോക്കൽ ആണ് ഇത് നാം നേരത്തെ കണ്ടതാണ് അതായത് ഒരു നെറ്റ്വർക്ക് എന്നത് റെസിപ്രോക്കൽ ആകണമെങ്കിൽ അതിന്റെ S മാട്രിക്സ് സിമെട്രിക് ആയിരിക്കണം ആ സിമെട്രി എന്ന സവിശേഷത നാം ഇവിടെ കൊണ്ട് വരുന്നു അതിന്റെ അർഥം എന്നിവ തുല്യമായിരിക്കും അപ്പോൾ ഈ രണ്ടിനെയും നമുക്കു എന്ന് വിളിക്കാം എന്നാൽ ഇത് രണ്ടിനെയും എന്ന് വിളിക്കുന്നു എന്തെന്നാൽ അത് നമുക്ക് ഒരു നല്ല ഉൾകാഴ്ച നൽകുന്നു കാരണം എന്നത് പവർ പോർട്ട് 1 ൽ കൊടുക്കുന്നു പിന്നെ പോർട്ട് 2 ലേക്ക് എത്രയാണ് പോകുന്നത് അതിനാലാണ് എന്നതിന് പകരം ഉപയോഗിക്കുന്നത് അതുപോലെ പിന്നെ എന്നത് എന്നിവയും ഇവിടെ എണ്ണി നോക്കിയാൽ അറിയാം ആകെ 6 അൺ നോൺ ആണ് ഉള്ളത് അപ്പോൾ ഈ സിമെട്രിക് സവിശേഷത കൊണ്ട് വന്നാൽ പിന്നെ ആകെ എത്ര അൺ നോൺ ഉണ്ട് അൺ നോൺ ആണ് അൺ നോൺ ആണ് അൺ നോൺ ആണ് പിന്നെ അൺ നോൺ അൺ നോൺ അവസാനം അൺ നോൺ ആണ് അപ്പോൾ ഈ S മാട്രിക്സിൽ ആകെ 6 അൺ നോൺ ആണ് ഉള്ളത് അപ്പോൾ ഈ ഡയറക്ഷണൽ കപ്ലറിൽ നാം 2 സവിശേഷതകൾ പ്രയോഗിച്ചു ഒന്ന് എല്ലാ പോർട്ടുകളും മാച്ച് ആണ് അടുത്ത് സിമെട്രിക് അത് നമുക്ക് 16 എലെമെന്റുകൾ ഉള്ള ഒരു 4 ബൈ 4 മാട്രിക്സ് തരുന്നു അതിൽ 10 എണ്ണം നാം ഇപ്പോൾ കുറച്ചു ഇനി ഇതിൽ 6 അൺ നോൺ ആണ് ബാക്കി ഉള്ളത് ഇനി നമുക്ക് മറ്റൊരു സവിശേഷത നോക്കാം അതായതു ഈ ഡയറക്ഷണൽ കപ്ലർ എന്നത് ലോസ് ലെസ്സ് ആണ് അതാണ് നമ്മുടെ മൂന്നാമത്തെ ആഗ്രഹം അപ്പോൾ S എന്നത് യൂണിറ്ററി ആയിരിക്കണം അപ്പോൾ ഇനിയും നമുക്ക് S മാട്രിക്സ് ലളിതമാക്കാം S എന്നത് യൂണിറ്ററി ആയിരിക്കണം എന്നതിന്റെ അർഥം ഒരു കോളം നാം മറ്റൊരു കോളവുമായി കോൺജ്യൂഗെറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടണം എന്നാണ് ഈ കാര്യം ഏകപക്ഷീയമാണ് നമുക്ക് ഇങ്ങനെ ആരംഭിക്കാം കോളം 1 എന്നത് കോളം 2 ആയാണ് കോൺജ്യൂഗെറ്റ് ഡോട്ട് ചെയ്യുന്നത് സോറി കോളം 1 കോളം 2 നെ കോൺജ്യൂഗെറ്റ് ഡോട്ട് ചെയ്യുന്നു ഈ അധികമുള്ള സ്റ്റാർ ഇവിടെ ഇല്ല അത് തിരുത്തുക പിന്നെ എന്നും ആണ് കോളം 3 ഡോട്ട് കോളം 3 സ്റ്റാർ എന്നത് 1 ആണ് പിന്നെ കോളം 3 ഡോട്ട് കോളം കോൺജ്യൂഗെറ്റ് എന്നത് 0 ആണ് അതുകൊണ്ടാണ് നാം ഇത് ഇങ്ങനെ കൊടുക്കുന്നത് നമുക്ക് മറ്റേതു രീതിയിലും ഇത് കൊടുക്കാനാകും ഇത് കാണാനായി നാം എടുത്തെന്നു മാത്രം ഇനി നമുക്ക് രണ്ടു ചോദ്യങ്ങൾ ആണ് ഉള്ളത് ഇനി നമുക്ക് ഈ സമവാക്യങ്ങൾ ലളിതമാക്കണമെങ്കിൽ ഈ രണ്ടു ടെം ആദ്യം നമുക്ക് ഒഴിവാക്കണം നിങ്ങൾക്കു കാണാം ഈ വച്ച് ആദ്യത്തെ സമവാക്യത്തെ എനിക്ക് ഗുണിക്കണം അതുപോലെ വച്ച് രണ്ടാമത്തെയും പിന്നീട് കുറക്കുക അപ്പോൾ എനിക്ക് ഈ ഫോർമുല കിട്ടും യൂണിറ്ററി സവിശേഷത എന്നതിൽ പല കണ്ടിഷനുകളും ഉണ്ട് ഇവിടെ പല കോളങ്ങളും ഉണ്ട് അത് മറ്റൊരു കോളവുമായി കോൺജ്യൂഗെറ്റ് ചെയ്താൽ എനിക്ക് 0 കിട്ടും എന്നാൽ അതെ കോളം ആണെങ്കിൽ 1 കിട്ടു൦ പല സമവാക്യങ്ങൾ ഇവിടെ ഉണ്ടാകും ഇതാണ് ആദ്യത്തേത് ആദ്യം നമുക്കുള്ളത് കോളം 1 കോളം 2 എന്നിവയായിരുന്നു ഇപ്പോൾ എന്നിവയാണ് ഇത് എന്നാൽ കോളം 1 എന്നത് കോളം 3 വച്ച് നാം നോക്കുന്നു അപ്പോൾ കോളം 1 എന്നത് കോളം 3 ആയി കോൺജ്യൂഗെറ്റ് ചെയ്യുന്നു അപ്പോൾ 0 കിട്ടി കോളം 2 എന്നത് കോളം 4 ആയി കോൺജ്യൂഗെറ്റ് ചെയ്യുന്നു അതും 0 ആണ് വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരിക്കുന്നു ഈ ഫോർമുലയെ സമവാക്യം b എന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ടു ഫോർമുലകൾ ആണ് കിട്ടിയത് a പിന്നെ b നിങ്ങൾക്കു നോക്കിയാൽ മനസിലാക്കാം അതിനു പല ഉത്തരങ്ങൾ സാധ്യമാണ് അതിൽ നിന്നും നാം ഒരെണ്ണം എടുക്കുന്നു പിന്നെ എന്നിവ 0 ആണ് അതുപോലെ പിന്നെ എന്നിവയും 0 ആണ് അപ്പോൾ എന്നത് എന്താണ് ഞാൻ പോർട്ട് 1 ൽ ഇൻപുട് പവർ കൊടുക്കുന്നു പോർട്ട് 4 ലേക്ക് എത്ര പവർ ആണ് വരുന്നത് അപ്പോൾ പോർട്ട് 1 ൽ പവർ കൊടുത്താൽ പോർട്ട് 4 ൽ പവർ വരില്ല അതുപോലെ ഞാൻ പോർട്ട് 2 ൽ പവർ കൊടുത്താൽ പോർട്ട് 3 ൽ പവർ ഒന്നും വരില്ല അപ്പോൾ അവയെല്ലാം 0 ആണ് അത് S പരാമീറ്ററിലേക്കു കൊടുക്കുക അപ്പോൾ ഈ യൂണിറ്ററി സവിശേഷത കാരണം രണ്ടു അൺ നോൺ ഇവിടെ മാറിയിരിക്കുന്നു ഇനി നമുക്ക് 4 കോംപ്ലക്സ് അൺ നോൺ ആണ് ബാക്കി ഉള്ളത് നാം ഈ യൂണിറ്ററി സവിശേഷത ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല ഇനിയും ഇത് ലളിതമാക്കാൻ നോക്കാം എന്നാൽ 6 അൺ നോൺ എന്നതിൽ നിന്നും അതെ സവിശേഷത ഉപയോഗിച്ച് 4 അൺ നോൺ ആക്കി മാറ്റിയല്ലോ എന്നാൽ ഓർക്കുക ഇവിടെ 4 കോംപ്ലക്സ് നമ്പറുകൾ ആണ് ഉള്ളത് എന്തെന്നാൽ S പാരാമീറ്റർ കോംപ്ലക്സ് നമ്പറുകൾ ആണ് അപ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് 8 അൺ നോൺ ആണ് ഉള്ളത് എന്നാൽ ഓരോ കോംപ്ലക്സ് നമ്പർ എടുത്താലും അത് എന്ന രൂപത്തിലാണ് A b എന്നിവ റിയൽ നമ്പർ ആണ് അപ്പോൾ 4 കോംപ്ലക്സ് നമ്പർ കണ്ടെത്തണമെങ്കിൽ നമുക്ക് 8 റിയൽ നമ്പർ കണ്ടെത്തണം അങ്ങനെയേ നമുക്ക് വേണ്ട S മാട്രിക്സ് കാണാനാകൂ വീണ്ടും നാം പഴയ കാര്യം പറയുന്നു വ്യത്യസ്തമായ കോളങ്ങൾ ആണ് നാം കോൺജ്യൂഗെറ്റ് ചെയ്യുന്നതെകിൽ നമുക്ക് 0 ആണ് ഉത്തരം കിട്ടുക ഇനി സ്വയം ചെയ്യുക എന്നതാണ് അടുത്ത കാര്യം അപ്പോൾ ഏതു മാട്രിക്സ് ആണെങ്കിലും നിങ്ങൾക്കു കിട്ടുന്നത് താഴെ പറയുന്ന രീതിയിൽ ആയിരിക്കും

ഇത് പ്ലസ് ഇത് ഈ സ്ക്വയർ പ്ലസ് ഈ സ്ക്വയർ എന്നത് 1 ആണ് ഈ മാഗ്നിറ്റൂഡ് സ്ക്വയർ പ്ലസ് ഈ മാഗ്നിറ്റൂഡ് സ്ക്വയർ എന്നത് 1 ആണ് അതുപോലെ 4 സമവാക്യങ്ങൾ അതിൽ നിന്നും നാം 2 എണ്ണം എഴുതി അതിൽ നിന്നും പിന്നെ എന്നിവ സമമായിരിക്കണം ഇനി നാം മറ്റൊരു സവിശേഷത നോക്കുന്നു അതായത് ഈ മൂന്നാമത്തെ റോ നമുക്ക് തന്നത് പിന്നെ എന്നിവ ആണ് ഇതിൽ നിന്നും മാഗ്നിറ്റൂഡ് സംബന്ധിച്ച ഗൈഡ് ലൈൻ നമുക്ക് കാണാം അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എന്നത് എന്നതല്ലാതെ ഇത് റെക്ടാങ്കുലർ അല്ലാതെ മാഗ്നിറ്റൂഡ് ഫേസ് എന്ന രീതിയിലും എഴുതാം ഇവിടെ ഈ മാഗ്നിറ്റൂഡ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞു അവസാനം ഇതിൽ നിന്നും നമുക്ക് 6 റിയൽ നമ്പറുകൾ ആണ് വേണ്ടത് അവ എന്നിവയാണ് ഈ 4 കോംപ്ലക്സ് അൺ നോൺ എന്നിവയിൽ നിന്നും ഒരെണ്ണം മാറ്റി അവസാനം 6 റിയൽ അൺ നോൺ ആണ് കാണേണ്ടത് ഇനി ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ പൊതുവായി ഇതാണ് തെരഞ്ഞെടുക്കുക അതായത് പിന്നെ എന്നിവ കോംപ്ലക്സ് ആണെങ്കിലും അത് നാം റഫറൻസ് വച്ച് നോക്കിയാൽ അവയുടെ ഫേസ് 0 ആണ് അപ്പോൾ പിന്നെ എന്നിവ നോക്കുമ്പോൾ ഈ എന്നത് പവർ പോർട്ട് 1 ൽ കൊടുക്കുന്നു പിന്നെ 2 ൽ നിന്നും എടുക്കുന്നു അതിൽ ഒന്ന് നാം റഫറൻസ് ആക്കുന്നു അത് ഈ ആൽഫ ആണ് അത് റിയൽ നമ്പർ ആണ് പിന്നെ എന്നത് പവർ 4 ൽ കൊടുക്കുന്നു പിന്നെ 3 ൽ നിന്നും എടുക്കുന്നു അത് ഈ എന്നതുമായി ഒരു രീതിയിലും ബന്ധപ്പെടുന്നില്ല അതിനാലാണ് ഇവ രണ്ടും ആൽഫ ആയത് എന്നാൽ ഈ അതുപോലെ എനിക്ക് ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കാനാകില്ല ഞാൻ ഇവിടെ എന്നത് ആൽഫ ആയി എടുത്തു എന്നാൽ എന്നതിൽ ഒരു ഫേസ് ഉള്ളതാണ് അപ്പോൾ ഈ എന്നത് ൽ നിന്നും വ്യത്യസ്തമാണ് അപ്പോൾ എന്നതിന്റെ മാഗ്നിറ്റൂഡ് ബീറ്റ ആയി എടുക്കുന്നു അത് റിയൽ ആണ് അതുപോലെ അതിന്റെ ഫേസ് എന്നത് തീറ്റ ആയി എടുക്കുന്നു അത് മറ്റൊരു റിയൽ നമ്പർ ആണ് പിന്നെ അത് ആംഗിൾ ആണ് പിന്നെ എന്നതിന്റെ മാഗ്നിറ്റൂഡ് ബീറ്റ ആണ് എന്തെന്നാൽ എന്നിവയുടെ മാഗ്നിറ്റൂഡ് ഒന്ന് തന്നെ ആണ് അതിനാലാണ് ഈ രണ്ടിനും നാം ബീറ്റ എന്ന് എടുക്കുന്നത് എന്നാൽ അവയുടെ ഫേസ് വ്യത്യസ്തമാണ് അത് ആണ് ഇനി എത്ര അൺ നോൺ ആണ് ബാക്കി ഉള്ളത് ആൽഫ ബീറ്റ അങ്ങനെ രണ്ടു റിയൽ അൺ നോൺ പിന്നെ തീറ്റ ഫൈ അത് രണ്ടു റിയൽ ഫേസ് ടേമുകൾ അപ്പോൾ ആകെ ഇനി 4 അൺ നോൺ ആണ് ഒരു ഡയറക്ഷണൽ കപ്ലറിന്റെ S പരാമീറ്ററിൽ ബാക്കി ഉള്ളത് വീണ്ടും നാം അതെ സവിശേഷത കോളം 2 ലേക്ക് കൊണ്ടുവരുന്നു അത് നാം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ 1 2 3 4 എന്നിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് എടുത്താൽ നമുക്ക് ഈ രണ്ടു ഫേസുകൾ തമ്മിലുള്ള ബന്ധം കിട്ടും അപ്പോൾ മനസ്സിലാകും ഈ എന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവയുടെ തുക ആയിരിക്കണം ഇവിടെ നമുക്ക് രണ്ടു മാർഗങ്ങൾ ഉണ്ട് ഒന്ന് സിമെട്രിക് കപ്ലർ മറ്റൊന്ന് ആന്റി സിമെട്രിക് കപ്ലർ സിമെട്രിക് കപ്ലറിൽ ആയിരിക്കും അപ്പോൾ നാം ഈ രണ്ടു ഫേസുകൾ തുല്യമായി എടുക്കുന്നു അതായതു ഇതിന്റെ പകുതി അപ്പോൾ എന്നിവ ഇതിന്റെ പകുതി ആണ് അതാണ് സിമെട്രിക് കപ്ലർ ഇനി ആന്റി സിമെട്രിക് കപ്ലർ അപ്പോൾ ഇത് ഒരു ഡയറക്ഷണൽ കപ്ലർ ആകുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞതെന്താണ് ഈ ഡയറക്ഷണൽ കപ്ലറിന്റെ സ്കേറ്ററിങ് മാട്രിക്സിൽ 4 അൺ നോൺ ആണ് ഉള്ളത് ആൽഫ ബീറ്റ തീറ്റ പിന്നെ ഫൈ ഇനി അത് സിമെട്രിക് ആകാം അല്ലെങ്കിൽ ആന്റി സിമെട്രിക് ആകാം

ഇതാണ് ഒരു ഡയറക്ഷണൽ കപ്ലറിന്റെ സിംബൽ ഡയറക്ഷണൽ കപ്ലറിന്റെ ഇൻപുട് കൊടുത്തിരിക്കുന്നു നിങ്ങൾക്കു കാണാം ഇൻപുട് എന്നത് പോർട്ട് 2 ലേക്കാണ് പോകുന്നത് അപ്പോൾ പോർട്ട് 1 ലേക്ക് കൊടുക്കുന്നതെല്ലാം പോർട്ട് 2 ലേക്കും പോർട്ട് 3 യിലേക്കും പോകുന്നു നിങ്ങൾക്കു ഇവിടെ നോക്കിയാൽ കാണാം ഈ കോളം ആണ് പോർട്ട് 1 ൽ എന്താണ് എന്ന് കാണിക്കുന്നത് പോർട്ട് 1 ൽ എന്തോ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും ഒന്നും വരുന്നില്ല എന്തെന്നാൽ അത് മാച്ച് ചെയ്തിരിക്കുന്നു പിന്നെ കുറച്ചു പവർ പോർട്ട് 2 ലേക്ക് പോയിരിക്കുന്നു അതുപോലെ പോർട്ട് 3 ലേക്കും പോർട്ട് 4 ലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല അതുകൊണ്ടാണ് ഡയറക്ഷണൽ കപ്ലറിൽ പോർട്ട് 4 എന്നതിനെ ഐസൊലേറ്റഡ് പോർട്ട് എന്ന് വിളിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ പോർട്ട് 1 ലേക്ക് പവർ കൊടുത്താലും അത് പോർട്ട് 2 പോർട്ട് 3 എന്നിവയിലേക്കാണ് പോകുന്നത് പോർട്ട് 4 പവർ ലഭിക്കില്ല അതുപോലെ നമ്മൾ പോർട്ട് 2 ൽ പവർ കൊടുത്താൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കു കാണാം ഈ പോർട്ട് 2 ൽ നിന്നും പവർ ഒന്നും പുറത്തു വരുന്നില്ല പവർ പോർട്ട് 1 ലേക്ക് പോകുന്നു പവർ പോർട്ട് 4 ലേക്ക് പോകുന്നു പോർട്ട് 3 ലും ഒന്നും വരുന്നില്ല അപ്പോൾ പോർട്ട് 2 ൽ പവർ കൊടുത്താൽ പോർട്ട് 3 ആണ് ഐസൊലേറ്റഡ് പോർട്ട് അതുപോലെ പോർട്ട് 3 ൽ പവർ കൊടുത്താൽ പോർട്ട് 2 ആണ് ഐസൊലേറ്റഡ് പോർട്ട് മറ്റുള്ള പോർട്ടിൽ എന്തെങ്കിലും ലഭിക്കും ഇനി പോർട്ട് 4 ആണെങ്കിലോ അപ്പോൾ പോർട്ട് 1 ആണ് ഐസൊലേറ്റഡ് പോർട്ട് എന്നാൽ ഈ പോർട്ട് 1 ന്റെ രൂപത്തിൽ നാം ഇവിടെ പേര് കൊടുക്കേണ്ടതാണ് എന്തെന്നാൽ ഇത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം അപ്പോൾ അതനുസരിച്ചു നാം പോർട്ട് 1 ൽ പവർ കൊടുക്കുന്നു അപ്പോൾ പോർട്ട് 4 ആണ് ഐസൊലേറ്റഡ് പോർട്ട് നെറ്റ്വർക്ക് അനലൈസറിൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ അറിയാം പോർട്ട് 2 എന്നത് മെയിൻ ലൈൻ ആണ് അപ്പോൾ ഈ പോർട്ട് 2 എന്നത് ത്രൂ പോർട്ട് എന്ന് പറയുന്നു പിന്നെ പോർട്ട് 3 എന്നത് കപ്പിൾഡ് പോർട്ട് അതിനാണ് കപ്ലർ എന്ന പേര് പറയുന്നത് ഈ സിംബലിൽ കാണാം ഇതാണ് കപ്പിൾഡ് പോർട്ട് പിന്നെ ഇതാണ് ത്രൂ പോർട്ട് ചിലപ്പോൾ ഈ ത്രൂ എന്നത് t h r u എന്ന് എഴുതാം എന്നാൽ അത് ത്രൂ ആണ് പിന്നെ ഇതാണ് നെറ്റ്വർക്ക് അനലൈസറിന്റെ ചിത്രം പിന്നെ ഡയറക്ഷണൽ കപ്ലർ ചിലപ്പോൾ ഈ സിംബൽ പകരമായി ഉപയോഗിക്കാറുണ്ട് പോർട്ട് 1 ൽ പവർ കൊടുക്കുമ്പോൾ അത് പോർട്ട് 2 ലേക്ക് പോകുന്നുണ്ട് എന്നാൽ അത് കപിൾ ചെയ്താണ് പോകുന്നത് അപ്പോൾ കപിൾ എന്നതിന്റെ അർത്ഥമെന്താണ് എനിക്ക് ഒരു ലൈൻ ഉണ്ട് അത് വേവ് ഗൈഡ് ആകാം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ ആകാം പിന്നെ മറ്റൊരു ലൈൻ ഉണ്ട് ഇവിടെ ഞാൻ പവർ തീർച്ചയായും കൊടുക്കുന്നുണ്ട് പവർ ഇവിടെ പോകുന്നതാണ് എന്നാൽ ഇത് ഒരു കപിൾ ചെയ്ത പവർ അല്ല ഇത് ത്രൂ ആണ് ഇതാണ് മെയിൻ ലൈൻ എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഇവിടെ പവർ വരികയാണെങ്കിൽ അതിനെ ആണ് കപ്പിൾഡ് പവർ എന്ന് പറയുക അത് എങ്ങനെ നല്ലതാണ് എന്ന് പറയാനാകും ഇവിടെ റേഡിയേഷൻ ഒന്നും ഇല്ല ഇവിടെ 2 ലൈൻ ആണ് ഉള്ളത് അത് ഒന്നിന് മുകളിൽ മറ്റൊന്നായി വക്കുന്നു എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഹോൾ കൊടുത്തിരിക്കുന്നു അതിൽ നിന്നും പവർ വരുന്നു ആ കപ്ലിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് 3 ലേക്ക് കപ്പിൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പോർട്ട് 2 ൽ പവർ കൊടുത്താൽ അത് 4 ലേക്ക് കപ്പിൾ ചെയ്യുന്നു ഇനി എന്ത്കൊണ്ട് നാം പവർ 2 ൽ കൊടുക്കുന്നു ഞാൻ പോർട്ട് 1 ൽ ആണ് കൊടുക്കുന്നത് എന്നത് സത്യമാണ് എന്നാൽ അത് 2 ലേക്കാണ് പോകുന്നത് അകത്തു ഒരു മിസ് മാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കുക ഈ പോർട്ട് വരെ നാം ഡിസൈൻ ചെയ്തു എന്നാൽ ചിലപ്പോൾ ഇവിടെ മാച്ച് ചെയ്ത ലോഡ് അല്ല എങ്കിൽ ഇവിടെ തിരിച്ചു വരുന്നതാണ് ഇനി അത് പോർട്ട് 4 ലേക്ക് പോകുന്നതാണ് അത് മറ്റുള്ള പോർട്ടുകളെ ശല്യപ്പെടുത്തില്ല ഈ ഡയറക്ഷണൽ കപ്ലർ 4 അളവുകൾ ഉപയോഗിച്ചാണ് വിശേഷിപ്പിക്കുക രണ്ടെണ്ണം ഇതാണ് കപ്ലിങ് പോർട്ട് 1 ൽ കൊടുത്ത എത്ര പവർ ഈ പോർട്ട് 3 ൽ പോകുന്നുണ്ട് അതിന്റെ ഡെഫിനിഷൻ എന്നത് ആണ് ഓർക്കുക അത് അല്ല അപ്പോൾ ലോഗ് എന്നത് നെഗറ്റീവ് ആകും കപ്ലിങ് പറയുമ്പോൾ അത് 10 dB കപ്ലർ ആണെന്ന് കരുതുക അതിന്റെ അർഥം ഇവിടെ ഞാൻ എത്ര പവർ കൊടുത്താലും അതിന്റെ പത്തിൽ ഒന്ന് ഭാഗം ഈ കപ്പിൾഡ് പോർട്ട് ലേക്കാണ് പോകുക എന്നാണ് അതിനെയാണ് എന്ന് പറയുന്നത് ഇനി ന്റെ രൂപത്തിൽ അത് നമുക്കെഴുതാം നമുക്കറിയാം എന്നത് ബീറ്റ ആയാണ് എടുത്തിട്ടുള്ളത് അതിനാലാണ് നാം ഇങ്ങനെ എഴുതുന്നത് അതുപോലെ ഇവിടെ മറ്റൊരു അളവുണ്ട് അതാണ് ഡയറക്ടിവിറ്റി ഡയറക്ടിവിറ്റി എന്നാൽ ഞാൻ ഈ ഫോർവേഡ് ദിശയിൽ പോർട്ട് 3 ലേക്ക് ഞാൻ പവർ കപ്പിൾ ചെയ്യാൻ നോക്കുന്നു ഇവിടെ പവർ മാച്ച് അല്ലെങ്കിൽ അത് പോർട്ട് 2 ൽ നിന്നും വരുന്നതാണ് അതുപോലെ തന്നെ പോർട്ട് 4 ൽ നിന്നും അപ്പോൾ ഇവിടെ കപ്ലിങ് എന്ത് തന്നെ ആയാലും അത് പരമാവധി കുറവാകാൻ നോക്കണം എന്തെന്നാൽ ഇവിടെ എത്ര ചെറുതാണെങ്കിലും ഒരു മിസ് മാച്ച് നല്ലതല്ല അതുകൊണ്ടാണ് ഇവിടെ ഡയറക്ടിവിറ്റി എന്നത് പോർട്ട് 3 ലെ പവർ ബൈ പോർട്ട് 4 ലെ പവർ ആവുന്നത് ഐഡിയൽ ആയി പറയുമ്പോൾ അത് വളരെ വലുതായിരിക്കണം ഇനി S പരാമീറ്ററിന്റെ രൂപത്തിൽ അത് എഴുതിയിരിക്കുന്നു അത് പിന്നെ ബീറ്റ എന്നിവയെ ആശ്രയിക്കുന്നു എന്നത് 0 ആണെന്ന് നാം ആദ്യം അനുമാനിച്ചതാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്നത് 0 ആകണമെന്നില്ല അത് കൊണ്ടാണ് ഡയറക്ടിവിറ്റി കണ്ടുപിടിക്കാൻ അളക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ഐസൊലേഷൻ ആണ് ഈ ഐസൊലേഷൻ എത്ര നല്ലതാണ് ആദ്യം പറഞ്ഞത് പോലെ 0 ആകേണ്ടതാണ് എന്നാൽ അതല്ല ആ ഐസൊലേഷൻ എന്നത് ആണ് അത് അളക്കേണ്ടതാണ് അതുപോലെ ഇവിടെ ഉള്ള കാര്യമാണ് ഇൻസെർഷൻ ലോസ് ഇവിടെ ഒരു പവറും പോകുന്നതല്ല ഇവിടെ ഈ ഡയറക്ഷണൽ കപ്ലർ ലോസ് ലെസ്സ് ആണെന്നാണ് നാം ഊഹിച്ചത് എന്നാൽ എന്ന പവർ ഞാൻ കൊടുക്കുമ്പോൾ കുറച്ചു പവർ ഇവിടെ പോകുന്നതാണ് പൂർണമായ പവർ എനിക്ക് ഈ ൽ ലഭിക്കുകയില്ല എന്തെന്നാൽ നമുക്ക് ഇവിടെ കപ്പിൾഡ് പോർട്ട് ഉള്ളതാണ് അത് നാം മനപ്പൂർവം ചെയ്യുന്നതാണ് ഇത് ലോസ് അല്ല എന്നാൽ നിങ്ങൾക്കു പറയാം ഈ ഫോർവേഡ് ലൈനിൽ കൂടെ ആണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് അതിൽ നിന്നും എത്ര പവർ എനിക്ക് ലഭിക്കുന്നില്ല ചിലപ്പോൾ ഇവിടെ റേഡിയേഷൻ അല്ലെങ്കിൽ സ്പ്രെഡിങ് ലോസ് എന്നിവ ഉണ്ടാകാം അതുപോലെ ഇൻസെർഷൻ ലോസ് എന്നത് ഇതിൽ ഉള്ള ഒരു ലോസ് അല്ല കാരണം അതെ പവർ ഞാൻ മനഃപൂർവം കപ്പിൾ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് കിട്ടാത്തത് എത്രയാണ് പിന്നെ കപ്പിൾ ചെയ്യാൻ വേണ്ടി എത്രയാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ആണ് ഈ ഇൻസെർഷൻ ലോസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് ഡെഫിനിഷൻ അത് നിങ്ങൾക്കു ചെയ്യാം അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്നത് ആണ് എന്നാൽ ഈ ബന്ധം dB യിൽ ആണ് അത് എളുപ്പത്തിൽ ചെയ്യാം ഇനി ഡയറക്ടിവിറ്റി എന്നത് ഫോർവേഡ് വേവ് പിന്നെ ബാക്ക് വേഡ് എന്നിവയെ വേർതിരിക്കാനുള്ള കപ്ലറിന്റെ കഴിവാണ് ഞാൻ പറഞ്ഞത് പോലെ ഈ ഡയഗ്രത്തിലേക്കു നോക്കിയാൽ അതായതു ഈ രണ്ടാമത്തേതിൽ പറയുന്നത് ഈ ഡയറക്ടിവിറ്റി ഇവിടെ എത്ര പോകുന്നു പിന്നെ ഇവിടെ എത്ര എന്നതാണ് ഇതാണ് ഇൻസിഡന്റ് വേവ് അത് പോർട്ട് 3 ലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ പോർട്ട് 2 ൽ റിഫ്ലക്ട് ചെയ്യുന്നതൊക്കെ ഈ പോർട്ട് 4 ലൂടെ വരുന്നു അത് വേർതിരിക്കപ്പെടുന്നു ഈ കാര്യം നാം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഏതു വേവ് ഗൈഡ് ആണെങ്കിലും അതിനു ഒരു ഇൻസിഡന്റ് വേവ് ഉണ്ടാകും അത് പോലെ റിഫ്ലെക്ടഡ് വേവ് എന്നാൽ ഈ 4 പോർട്ട് ഡിവൈസ് ഉപയോഗിച്ച് എനിക്കതിനെ വേർതിരിക്കാനാകും എന്തെന്നാൽ ഈ മെയിൻ ലൈനിൽ കൂടെ പോകുന്നതൊന്നും തന്നെ ഈ പോർട്ട് 4 ലേക്ക് വരില്ല അവ വേർതിരിച്ചിരിക്കുന്നു അപ്പോൾ ഈ റിഫ്ലെക്ടഡ് വേവ് ഇവിടെ വരുന്നില്ല പിന്നെ ഇൻസിഡന്റ് വേവ് ആണ് വരുന്നത് എന്നാൽ ഇവിടെ ഇൻസിഡന്റ് വേവ് വരുന്നില്ല പോർട്ട് 4 ൽ ഇൻസിഡന്റ് വേവ് ഇല്ല അപ്പോൾ നിങ്ങൾക്കു കാണാം ഈ പോർട്ട് 4 ൽ റിഫ്ലെക്ടഡ് വേവ് മാത്രമാണ് ഉള്ളത് പിന്നെ പോർട്ട് 3 ൽ ഇൻസിഡന്റ് വേവ് മാത്രം അതിൽ റിഫ്ലെക്ടഡ് വേവ് ഒന്നും ഇല്ല അപ്പോൾ പോർട്ട് 3 പോർട്ട് 4 എന്നിവ ഇൻസിഡന്റ് വേവ് റിഫ്ലെക്ടഡ് വേവ് എന്നിവയെ വേർതിരിക്കുന്നു അത് നല്ല കാര്യമാണ് ഇത് പോർട്ട് 3 പോർട്ട് 4 എന്നിവയെ വേർതിരിക്കുന്നു അതായതു ഇൻസിഡന്റ് വേവ് റിഫ്ലെക്ടഡ് വേവ് ഇങ്ങനെ വേർതിരിക്കാനുള്ള കഴിവാണ് ഡയറക്ടിവിറ്റി ഐഡിയൽ ആയ ഡയറക്ഷണൽ കപ്ലർ എന്നത് ഈ ഉപകരണമാണ് നോക്കുക ഈ കപ്പിൾഡ് പോർട്ടിൽ പവർ അളക്കപ്പെടുന്നു നിങ്ങൾക്കു കാണാം സെൻസർ എന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു പവർ ഈ വശത്താണ് കൊടുക്കുന്നത് പവർ പോർട്ട് 1 ൽ ആണ് കൊടുത്തിരിക്കുന്നത് ലാബിൽ ഈ പോർട്ട് 4 എന്നത് നമുക്കുപയോഗിക്കാനാകില്ല എന്നാൽ യഥാർത്ഥത്തിൽ അത് നാം ഉപയോഗിക്കുന്നുണ്ട് നെറ്റ്വർക്ക് അനലൈസറിൽ പോർട്ട് 4 ഉപയോഗിക്കുന്ന പല ഡയറക്ഷണൽ കപ്ലർ ഉണ്ട് അത് തന്നെ ആണ് ഇവിടെയും ഓപ്പോസിറ്റ് ആയ കാര്യം ഇവിടെ കപ്പിൾഡ് പോർട്ട് മാച്ച് ചെയ്തിരിക്കുന്നു മാച്ച് ടെർമിനേഷൻ ആണ് അത് ഞാൻ ഇവിടെ ആണ് പവർ കൊടുക്കുന്നത് ഇനി ഇൻസിഡന്റ് വേവ് റിഫ്ലെക്ടഡ് വേവ് എന്നിവയെ വേർതിരിക്കുന്നു ഞാൻ പറഞ്ഞത് പോലെ ഇൻസിഡന്റ് വേവ് പോർട്ട് 3 ലേക്ക് പോകുന്നു അത് പോർട്ട് 2 ൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു റിഫ്ലെക്ടഡ് വേവ് പോർട്ട് 4 ലേക്ക് പോകുന്നു അത് പോർട്ട് 1 ൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു പോർട്ട് 3 പോർട്ട് 4 എന്നിവയിൽ ഇൻസിഡന്റ് വേവ് റിഫ്ലെക്ടഡ് വേവ് എന്നിവ വേർതിരിയുന്നു നെറ്റ്വർക്ക് അനാലിസിസിന്റെ ആധാരം ഇതാണ് നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് സ്കേറ്ററിങ് പാരാമീറ്റർ അളക്കുന്നതിന്റെ ആധാരം ഇതാണ് അതിനാലാണ് ഡയറക്ഷണൽ കപ്ലർ ഇത്ര പ്രധാനമാകുന്നത് ഡയറക്ഷണൽ കപ്ലറിന്റെ ഒരു രൂപമാണ് ഹൈബ്രിഡ് കപ്ലർ ഇവിടെ കപ്ലിങ് ഫാക്ടർ എന്നത് 3 dB ആണ് അതായതു ഞാൻ എത്ര പവർ ഇവിടെ കൊടുക്കുന്നുവോ അതിന്റെ പകുതി കപ്പിൾഡ് പോർടട്ടിലേക്കു പോകുന്നു നിങ്ങൾക്കു കാണാം ആൽഫ ബീറ്റ എന്നിവ ആണ് ഈ മാജിക് ടീ നാം ആദ്യം പറഞ്ഞതാണു ഇതിനെ റാറ്റ് റേസ് എന്നും വിളിക്കുന്നു അതാണ് ഈ ഹൈബ്രിഡ് കപ്ലർ അത് ആണ് അതോടൊപ്പം ഇതൊരു ആന്റി സിമെട്രിക് ഡയറക്ഷണൽ കപ്ലർ ആണ് അപ്പോൾ തീറ്റ എന്നത് 0 ആണെങ്കിൽ ഫൈ എന്നത് ആയിരിക്കും അപ്പോൾ S മാട്രിക്സ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ പൊതുവായ ഒരു ഡയറക്ഷണൽ കപ്ലറിൽ ആൽഫ ബീറ്റ തീറ്റ പിന്നെ ഫൈ ഈ വാല്യൂ കൊടുത്തു നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഇതാണ് 4 അൺ നോൺ ഇങ്ങനെ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഡയറക്ഷണൽ കപ്ലർ ഇതിന്റെ ഭംഗി എന്താണ് ഞാൻ ഈ പോർട്ട് 1 ൽ സിഗ്നൽ കൊടുത്താൽ ഇവിടെ എന്താണ് സംഭവിക്കുക പോർട്ട് 2 പോർട്ട് 3 എന്നിവയുടെ ഇടയിൽ ഈ സിഗ്നൽ വിഭജിക്കപ്പെടുന്നു അവയുടെ ഫേസ് ഒന്ന് തന്നെ ആണ് അപ്പോൾ നമുക്ക് ഒരേ പോലെ വിഭജിച്ച രണ്ടു സിഗ്നൽ ആണ് പോർട്ട് 2 3 എന്നിവയിൽ ലഭിക്കുക പിന്നെ പോർട്ട് 4 ഐസൊലേറ്റഡ് ആണ് അത് പോലെ പോർട്ട് 4 ൽ സിഗ്നൽ കൊടുത്താൽ സിഗ്നൽ എന്നത് പോർട്ട് 2 പോർട്ട് 3 എന്നിവയ്ക്കിടയിൽ ആണ് വിഭജിക്കുക എന്നാൽ അവ ഓപ്പോസിറ്റ് ഫേസ് ആണ് സിഗ്നൽ പോർട്ട് 1 ലേക്ക് പോകുന്നില്ല പോർട്ട് 1 ഐസൊലേറ്റഡ് ആണ് അപ്പോൾ ഇത് ഒരു പവർ ഡിവൈഡർ ആയി എനിക്കുപയോഗിക്കാം എനിക്ക് പോർട്ട് 1 അല്ലെങ്കിൽ പോർട്ട് 2 ഇതിലേതെങ്കിലും കൊടുത്താൽ മതി രണ്ടു കേസിലും ഒരേ പവർ തന്നെ ആണ് രണ്ടു പോർട്ടിലും കിട്ടുക അത് രണ്ടു പോർട്ടിലേക്കു ഡിവൈഡ് ചെയ്യുന്നു ഇനി നിങ്ങളുടെ ആഗ്രഹമനുസരിച്ചു നിങ്ങൾ പോർട്ട് 1 ൽ കൊടുത്താൽ2 dB പവർ ആണ് ഡിവൈഡ് ചെയ്തു കിട്ടുക രണ്ടിന്റെയും ഫേസ് തുല്യമായിരിക്കും എന്നാൽ പോർട്ട് 4 ൽ പവർ കൊടുത്താൽ അവയുടെ ഫേസ് വിപരീതം ആയിരിക്കും അപ്പോൾ പവർ ഡിവിഷൻ ഇവിടെ രണ്ടു തരത്തിൽ നടക്കുന്നു എന്നാൽ ഇതിനെ ഒരു പവർ കമ്പൈനർ ആയി ഉപയോഗിക്കാനാകും നിങ്ങൾക്കു കാണാം അതെ സ്കേറ്ററിങ് മാട്രിക്സ് ആണ് ഇവിടെ ഇനി പോർട്ട് 2 പോർട്ട് 3 എന്നിവയിൽ സിഗ്നൽ കൊടുക്കുക 2 എന്നാൽ ഇത് പിന്നെ 3 എന്നാൽ ഇത് ഇതൊരു ലീനിയർ സർക്യൂട് ആണ് അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുക അതായതു ഞാൻ പോർട്ട് 2 3 എന്നിവയിൽ സിഗ്നൽ കൊടുത്താൽ പോർട്ട് 1 പോർട്ട് 4 എന്നിവയിൽ മാത്രമാണ് സിഗ്നൽ വരിക ഇനി തുക ഇതാണ് ഇത് 2 പിന്നെ ഇത് 0 ഞാൻ ഏതൊക്കെ സിഗ്നൽ ആണോ പോർട്ട് 2 3 എന്നിവയിൽ കൊടുത്ത് അവയുടെ തുകയാണ് പോർട്ട് 1 ൽ കിട്ടുക പോർട്ട് 4 എന്നത് 0 ആയിരിക്കും ഇത് വളരെ പ്രധാനമാണ് എന്തെന്നാൽ റഡാർ പോലുള്ള ഉപകരണങ്ങളിൽ നിങ്ങൾക്കു ആംഗിൾ വളരെ കൃത്യമായി കണ്ടു പിടിക്കണം അപ്പോൾ ഏതൊക്കെ സിഗ്നൽ ആണോ എനിക്ക് കിട്ടുക അതിന്റെ തുക എനിക്ക് വേണ്ടതാണ് അപ്പോൾ ഈ തുക ഞാൻ വിഭജിക്കുകയാണെങ്കിൽ എനിക്ക് കൃത്യമായ ഫേസ് അളവ് ലഭിക്കുന്നതാണ് അതാണ് മോണോ പൾസ് ടെക്നിക് അവിടെ ആണ് ഈ റാറ്റ് റേസ് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ കേസിൽ ഇതിനെ എന്ത് കൊണ്ടാണ് മാജിക് എന്ന് വിളിക്കുന്നത് ഈ മാജിക് ടീ യുടെ ചിത്രം നോക്കുക എനിക്ക് ഈ 4 പോർട്ട് ഉപകരണം പവർ ഡിവൈഡർ അല്ലെങ്കിൽ പവർ കമ്പൈനർ ആയി ഉപയോഗിക്കാ൦ നാം ഈ ലെക്ചർ എങ്ങനെ ആണ് ആരംഭിച്ചത് എന്ന് നോക്കുക ചിലപ്പോൾ നമുക്ക് പവർ ഡിവിഷൻ ആണ് വേണ്ടത് ചിലപ്പോൾ പവർ കമ്പൈനർ പൊതുവെ അവ വ്യത്യസ്തമായ ഉപകരണങ്ങൾ ആണ് എന്നാൽ റാറ്റ് റേസ് ആണ് ഒരേ സമയം പവർ ഡിവൈഡർ പിന്നെ പവർ കമ്പൈനർ ആകുക അതിൽ നിങ്ങൾക്കു പവർ ഒന്നിപ്പിക്കാം അല്ലെങ്കിൽ പവർ വിഭജിക്കാം ഒന്നുകിൽ ഒരേ ഫേസ് ആകാം അല്ലെങ്കിൽ വിപരീതവും ആകാം ഇതാണ് വേവ് ഗൈഡ് വേർഷൻ ഒരു ഡയറക്ഷണൽ കപ്ലറിന്റെ ഇടതു വശം എന്നത് 2 പ്ലെയിൻ ആണ് അത് രണ്ടു ടീ ജംഗ്ഷൻ ആണ് അതും ഓർത്തോഗോണൽ പ്ലൈനിൽ അതാണ് ഇവിടെ ഈ നാലാമത്തെ പോർട്ട് നിർമിക്കുക ഇതാണ് ഡിഫറെൻസ് പോർട്ട് ഇതാണ് സം പോർട്ട് പിന്നെ ഇതാണ് മെയിൻ ലൈൻ ഇവിടെ രണ്ടു ഓക്സിലറി ലൈനുകൾ ഉണ്ട് ഇതേ കാര്യത്തിന്റെ പ്ലാനർ വേർഷൻ ആണ് ഇത് റാറ്റ് റേസ് ആണ് ഇവിടെ പവർ കൊടുത്താൽ അവ ഇവിടെ വരുന്നു പിന്നെ അതുപോലെ ഇവിടെയും അതാണ് ഇത് റാറ്റ് റേസ് ആകുന്നത് നമ്മുടെ ലാബിൽ നമുക്ക് പവർ ഹീറ്റിംഗ് ഉണ്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പോർട്ടിനെ സംബന്ധിച്ചു കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഇടയുണ്ട് ഇതാണ് പോർട്ട് 2 പോർട്ട് 3 എന്നിവ പിന്നെ ഇത് പോർട്ട് 1 അതുപോലെ ഇത് പോർട്ട് 4 ഇതാണ് ഡിഫറെൻസ് പോർട്ട് പിന്നെ ഇതാണ് സം പോർട്ട് നാം വളരെ പ്രധാനപ്പെട്ട രണ്ടു ഉപകരണങ്ങൾ കണ്ടു റാറ്റ് റേസ് അല്ലെങ്കിൽ മാജിക് ടീ പിന്നെ ഡയറക്ഷണൽ കപ്ലർ ഇതാണ് S പാരാമീറ്റർ അതിന്റെ പിന്നിലെ ഫിസിക്സ് മനസ്സിലാക്കാനാണ് അത് പറഞ്ഞത് എന്നാൽ ആകെ വോൾടേജ് കറന്റ് എന്നിവ ഉപയോഗിച്ചാൽ ഇതൊന്നും മനസ്സിലാകില്ല എന്നാൽ S പാരാമീറ്റർ ഉപയോഗിച്ച് വേവ് നേച്ചറിൽ മാത്രമാണ് അകത്തു എന്താണെന്നു മനസ്സിലാകുക